ഇന്ന് നമുക്ക് 2D എഡ്ജ് ബേസ്ഡ് FEM ന്റെ അവസാനത്തെ വീക്ഷണം നോക്കാം മാട്രിക്സ് എലമെന്റ്സ് നിർണ്ണയിക്കുന്നതിനുള്ള ചില ന്യൂമറിക്കൽ വീക്ഷണത്തിലേക്ക് നമുക്ക് നോക്കാം മാട്രിക്സ് എലമെന്റ്സ് എങ്ങനെ നിർണ്ണയിക്കും എന്നതിനെ കുറിച്ച് ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല എന്ന ഫങ്ക്ഷൻനമുക്ക് ഉണ്ട് പിന്നീട് നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു പ്രത്യേക ടെസ്റ്റിംഗ് ഫങ്ക്ഷൻതിരഞ്ഞെടുത്താൽ ഇത് ആയി മാറും എന്ന് H നെ തന്നെ വികസിപ്പിക്കുന്നത് ഈ Ts ന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും നമ്മൾ എന്താണ് ചെയ്തത് ഇതിനെ നമ്മൾ വെറും എക്സ്പ്രഷൻ ആയി വെച്ചു പക്ഷെ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ശരിക്കും നിർണ്ണയിക്കുക അവിടെ ചില സൂക്ഷ്മവിവേചനം ഉണ്ട് നമ്മൾ അത് ചർച്ച ചെയ്യും ഇവിടെ ആണ് നമ്മൾ സമവാക്യങ്ങളുടെ സമ്മേളനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം ഇത് പരിചിതം ആണ് നിങ്ങളുടെ മാട്രിക്സ് എലമെന്റ്സ് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഈ As ൽ ഈ തരത്തിൽ ഉള്ള ടെർമ്സ് ഉൾക്കൊള്ളുന്നു പച്ച കൊണ്ട് അടിവര ഇട്ടിരിക്കുന്ന ടെർമ്സ് നെ കപ്പ്ളിങ്ങ് കോഎഫിഷിയന്റ്സ്എന്ന് പറയുന്നു വ്യത്യസ്ത T കൾ ക്കിടയിലുള്ള കാര്യങ്ങളിൽ ആണ് നമുക്ക് താല്പര്യം ഉള്ളത് ഇപ്പോൾ ഇവിടെയാണ് അടുത്തത് ഇതാണ് പ്രധാന എക്സ്പ്രഷൻ അത് നമ്മൾ മനസ്സിൽ വെക്കുക എന്താണ് T യുടെ ഫോം ഇവിടെ ഇവയാണ് നമ്മൾ നിർണ്ണയിക്കേണ്ട പല തരത്തിൽ ഉള്ള ടെർമ്സ് T യുടെ ഫോം എന്തായിരുന്നു നമുക്ക് ബേസിസ് ഫങ്ക്ഷൻസ്ലേക്ക് തിരിച്ചു പോവാം ഇതാണ് നമുക്ക് കിട്ടിയ ഫോം അത് x ലും y ലും ലീനിയർ ആണെന്ന് നിങ്ങൾക്ക് കാണാം നമുക്ക് തിരിച്ചു പോയി എല്ലാം ഇവിടെ എഴുതാം അപ്പോൾ എനിക്ക് ഇത് കിട്ടി എവിടെയാണ് ഈ A B C D എലമെന്റ് ന്റെ കോഓർഡിനേറ്റ്സ്ൽ നിന്നാണ് ഇവ വരുന്നത് ഇതെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് 2 ടെർമ്സ് ഉണ്ട് ആദ്യത്തെ ടെർമ് പിന്നെ രണ്ടാമത്തെ ടെർമ് ആദ്യത്തെ ടെർമ് ന് എനിക്ക് നിർണ്ണയിക്കണം നിർണ്ണയിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കേൾ നിർണ്ണയിക്കാനുള്ള വെക്ടർ ആണിത് ഞാൻ എന്ത് ചെയ്യും പക്ഷെ അടിസ്ഥാനപരമായി കോൺസ്റ്റന്റ് ആണ് ഇത് x ന്റെയും y ന്റെയും ഫങ്ക്ഷൻ അല്ല ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം ആണ് പോലത്തെ ടെർമ്സ് നെ പറ്റി എന്താണ് ഏത് തരത്തിൽ ഉള്ള എക്സ്പ്രഷൻആണ് എനിക്ക് കിട്ടുക നിങ്ങൾക്ക് ഉണ്ട് ഇത് ഈ ഫോം ൽ ആണ് ഇതിന് ചില A B C D ഉണ്ട് ഞാൻ ഡോട്ട് പ്രോഡക്റ്റ്എടുക്കാൻ പോവുകയാണ് അതായത് ഞാൻ x കമ്പോണെന്റ്സ് നെ ഗുണിക്കുകയാണ് വിദ്യാർത്ഥി നിങ്ങൾക്ക് ഉണ്ടാവും അതെ എനിക്ക് ഉണ്ട് ഉം വിദ്യാർത്ഥി xy എനിക്ക് ഒരു xy ടെർമ് ഉണ്ടാകുമോ x കമ്പോണെന്റ്സ്മാത്രമേ പരസ്പരം ഡോട്ടഡ് ആവുകയുള്ളൂ അത്കൊണ്ട് എനിക്ക് xy ടെർമ് കിട്ടില്ല പക്ഷെ എനിക്ക് y ലേക്കുള്ള ഒരു കോൺസ്റ്റന്റ് ടെർമ്ഉം x ലേക്കുള്ള ഒരു കോൺസ്റ്റന്റ് ടെർമ് ഉം കിട്ടും നമുക്ക് കൃത്യമായി ഒരു ലീനിയർ കിട്ടും അപ്പൊ അടിസ്ഥാനപരമായി ഇത് എനിക്ക് x y ൽ ഒരു ചതുർഭുജം തരും x y പോലത്തെ ചില ടെർമ്സ് ചിലപ്പോൾ അവിടെ ഉണ്ടാവാൻ സാധ്യത ഇല്ല പക്ഷെ നമ്മൾക്ക് അതിലേക്ക് കടക്കേണ്ട ആവശ്യം ഇല്ല നമ്മൾ അതിന് ഒരു പൊതുവായ സമീപനം കൊടുക്കാൻ ആണ് ശ്രമിക്കുന്നത് ഇപ്പോൾ അസ്സമ്ബ്ലി ടെർമ്ലേക്ക് നോക്കാം ഇവിടെ എനിക്ക് ക്യാപിറ്റൽ ഫൈ കിട്ടിയാൽഅത് ഒരു എലമെന്റിൽ elementഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അതാണ് എനിക്ക് പ്രവർത്തിക്കേണ്ട ഇന്റഗ്രൽ അത് കൊണ്ട് എനിക്ക് വേണ്ടത് ഇതാണ് ഈ ടെർമിൽ എവിടെയാണ് കോൺസ്റ്റന്റ് ഉള്ളത് അതായത് കോൺസ്റ്റന്റും ചതുർഭുജവും ചതുർഭുജം വരെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ എലമെന്റ് e ആണ് നിങ്ങളുടെ പൊതു ത്രികോണം ആവുന്നത് നിങ്ങളുടെ CADD സോഫ്റ്റ്വെയർനിങ്ങൾക്ക് ഈ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നു ഈ എലമെന്റ്സ് എവിടെ ആയിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണം ഇല്ല ഇപ്പോൾ ഈ ഇന്റഗ്രൽനിർണ്ണയിക്കാൻ ബാക്കിയുണ്ട് ഇന്റഗ്രൻഡ് എന്നത് പൊതുവെ ഒരു പോളിനോമിയൽആണ് നിങ്ങൾ എങ്ങനെ ഈ ഇന്റഗ്രൽനിർണ്ണായിക്കും ഇത് അറിഞ്ഞുകഴിഞ്ഞാൽഞാൻ അത് പൂർത്തിയാക്കി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എത്ര ഡൈമെൻഷണൽ ഇന്റഗ്രേഷൻ ഉണ്ടാവും വിദ്യാർത്ഥി 2 2 ഡൈമെൻഷണൽ ഇന്റഗ്രേഷൻ ഇത് എളുപ്പം ആണെന്ന് തോന്നും പക്ഷെ അത്ര എളുപ്പം അല്ല ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ത്രികോണത്തിൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് നമുക്ക് അറിയാമോ നമുക്ക് ഒരു ത്രികോണത്തെ ഈ ഫോം ൽ പരിഗണിക്കാം ഇത് 90 ഡിഗ്രി ആണ് നമുക്ക് ഇത് u v എന്ന് പറയാം ഇതിനെ 10എന്നും ഇതിനെ 01 വിളിക്കാം ഇപ്പോൾ ഈ ത്രികോണത്തിൽ ന്റെ ഇന്റഗ്രൽ ചെയ്യാൻ പറ്റുമോ f ഈ തൃകോണത്തിലെ ചില പോളിനോമിയൽ ആണ് ഈ ഇന്റഗ്രൽ എങ്ങനെ ആണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയാമോ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് 2 ഡൈമെൻഷണൽ ഇന്റഗ്രേഷൻഎങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഇത് പോലെ സ്ട്രിപ്പ്ആയി വിഭജിക്കുന്നു ഇവിടെ v ന് ഉള്ള ഇന്റഗ്രേഷൻന്റെ ലിമിറ്റ്സ് എന്തൊക്കെയാണ് ഈ വരിയുടെ ഇക്വേഷൻ എന്താണ്uv1 ഇതിനെ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് ഇൻറ്റഗ്രൽl ഇവിടെ f പോളിനോമിയൽ ആണെങ്കിൽ ഇത് നിർണ്ണയിക്കാൻ എളുപ്പം ആണ് എനിക്ക് ഇതിന് ഒരു ക്ലോസ്ഡ് ഫോം എക്സ്പ്രഷൻ കിട്ടുമോf പോളിനോമിയൽ ആണെങ്കിൽ വിദ്യാർത്ഥി കിട്ടും നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് ഫോം ഇക്വേഷൻകിട്ടും അവിടെ ഉള്ള പോളിനോമിയൽനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ്സ് നെ സബ്സ്റ്റിട്യൂട്ട്ചെയ്താൽ എനിക്ക് അത് കിട്ടും വാസ്ഥവത്തിൽ നല്ല ഒരു എക്സ്പ്രഷൻ ആയി മാറുന്നു അത്ഭുതം എന്തെന്നാൽ ഇത് ലളിതമായി മാറുന്നു ഉദാഹരണം നോക്കാം ഞാൻ p0q ഇട്ടാൽ അത് എനിക്ക് എന്ത് കിട്ടും p യും q ഉം 0 ആയാൽ അത് ഫിസിക്കലിഎന്താവും വിദ്യാർത്ഥി പകുതി പകുതിയാവാൻ കാരണം ത്രികോണത്തിന്റെ ഏരിയ പകുതി ആണ് ഈ എക്സ്പ്രഷൻനിങ്ങൾക്ക് നൽകുന്നതും അതാണ് ഈ ത്രികോണം എങ്ങനെ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയാം പക്ഷെ നമുക്ക് വേണ്ടത് ഈ ചുവന്ന ത്രികോണം ആണ് ഈ വിവരങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ വിദ്യാർത്ഥി പെർപെന്റിക്കുലർ ബൈസെക്ടർ ഓഫ് എന്തിന്റെ പെർപെന്റിക്കുലർ ബൈസെക്ടർ ചുവന്ന ത്രികോണം യൂണിറ്റ് ത്രികോണം അല്ല ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഒരു പെർപെന്റിക്കുലർ ബൈസെക്ടർഇടേണ്ടത് വിദ്യാർത്ഥി ഏതെങ്കിലും നോഡ് ഏതെങ്കിലും നോഡിൽ നിന്ന് എതിർ എഡ്ജിലേക്ക് ഇനി വിദ്യാർത്ഥി എഡ്ജ് നെ ബൈസെക്റ്റ് ചെയ്യണം ബൈസെക്ട് ശരിയാണ് പക്ഷെ എന്നിട്ടും അത് യൂണിറ്റ് അല്ല നിങ്ങൾ പറയുന്നു ത്രികോണങ്ങളെ വിഭജിച്ചു 2 മട്ടത്രികോണങ്ങൾ ആക്കിഅന്യോന്യം ഇന്റഗ്രേഷൻ ചെയ്യണം എന്ന് പക്ഷെ നിങ്ങൾ ത്രികോണങ്ങളെ തിരിക്കുകയും ചെയ്യണം കാരണം ഇപ്പോൾ നിങ്ങളുടെ ത്രികോണങ്ങൾ കൊഓർഡിനേറ്റ് ആക്സിസ് നോട് ഒത്തു പോകുന്നില്ല പച്ച ത്രികോണം പോലെ ഇതാണ് നിങ്ങളുടെ x ഉം y യും അത് പോരാ അതിനാൽ ഇവിടെ ബ്രൂട്ട് ഫോഴ്സ് സമീപനം ആണ് കൂടുതൽ നല്ലത് ഇവിടെ മുന്നോട്ട് പോവാൻ ഞാൻ നൽകുന്ന സൂചന വാരിയബിൾകളുടെ മാറ്റം ആണ് 2 ത്രികോണങ്ങളെ പരസ്പരം മാപ് ചെയ്യാൻ കഴിയുന്ന വാരിയബിൾകളുടെ മാറ്റം അവിടെ ഉണ്ടോ എന്നതാണ് എന്റെ ചോദ്യം നിങ്ങൾക്ക് ഏത് ത്രികോണത്തെയും യൂണിറ്റ് ത്രികോണത്തിനോട് മാപ് ചെയ്യാൻ കഴിയുമോ ഞാൻ നിങ്ങൾക്ക് കുറച്ചു കളിമണ്ണ് തന്ന് യൂണിറ്റ് ത്രികോണത്തിലേക്ക് മാപ് ചെയ്യാൻ പറഞ്ഞെന്ന് വിചാരിക്കുക വിദ്യാർത്ഥി അവക്ക് ഒരേ ഏരിയ ആണ് ഒരേ ഏരിയ ആവേണ്ട ആവശ്യം ഇല്ല നിങ്ങൾക്ക് കളിമണ്ണ് വലിച്ചു നീട്ടനും സങ്കോചിപ്പിക്കാനും കഴിയും ഈ ചുവന്ന ത്രികോണത്തെ പച്ച ത്രികോണത്തിനോട് മാപ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ് നെ ഒറിജിൻ ലേക്ക് നീക്കുക പ്രോജെക്ഷൻ അല്ല ചില വിപുലീകരണം അതായത് x ആക്സിസ് ലും y ആക്സിസ് ലും നടക്കും ഇതിൽ നിന്നും ഇതിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്നുള്ളത് ന്യായയുക്തം ആയിരിക്കണം നമുക്ക് അത് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം xy ഇതിനെ എഴുതാൻ ശ്രമിക്കാം ഇതാണ് ട്രാൻസ്ഫോർമേഷൻ അതിലേക്ക് വരുന്നതിന് മുമ്പ്ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം അവിടെ ഇതിൽ നിന്നും ഇതിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഇതിനെ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നു ഇത് എങ്ങനെ ആണ് പ്രവർത്തിക്കുന്നത് ഞാൻ ഇങ്ങനെ എഴുതുന്നു എന്ന് വിചാരിക്കുക ഇനി ഞാൻ u0 എന്നും v0 എന്നും പകരം വെക്കുന്നു എന്ത് സംഭവിക്കും എനിക്ക് കിട്ടും u1 v0 ഇട്ടാൽ അത്കൊണ്ട് എനിക്ക് എന്ത് കിട്ടും മറ്റേ പോയിന്റ് 01 എനിക്ക് ഇത് കിട്ടും അതിനാൽ എനിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടി അത് എന്റെ ചുവന്ന ത്രികോണത്തെ പച്ച ത്രികോണത്തിലേക്ക് വൃത്തിയായി മാപ് ചെയ്യുന്നു അതായത് പൊതുവായി എനിക്ക് ഈ ഇന്റഗ്രൽ നെ പരിവർത്തനം ചെയ്യാൻ കഴിയും നിങ്ങൾ വാരിയബിൾസ് നെ മാറ്റുമ്പോൾഅതാണ് ട്രാൻഫർമേഷന്റെ transformationജാകോബിയനിൽ ഓർമിക്കേണ്ട പ്രധാന കാര്യം ലളിതമായ ജാകോബിയൻ ടെർമ് ആണ് ഇവിടെ വരുന്നത്

എന്നത് ഏരിയ അല്ലാതെ മറ്റൊന്നുമല്ല ചുവന്ന ത്രികോണത്തിന്റെ ഏരിയ ഇത് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ് 2 ഡൈമെൻഷണൽ ഇന്റഗ്രേഷൻ എങ്ങനെ ആണ് ചെയ്യുന്നത് വാരിയബിളുകൾ മാറ്റുന്നത് എങ്ങനെ ആണ് ഉദാഹരണമായി ഈ ഇന്റഗ്രൽ എനിക്ക് വിലയിരുത്തണം നമുക്ക് ഈ ടെർമ് നെ a b c d എന്ന് വിളിക്കാം ഇതാണ് എനിക്ക് നിർണ്ണയിക്കേണ്ട ഇന്റഗ്രൽ നമുക്ക് x y ഇത് പോലെ ഒരു ടെർമ് കിട്ടും ഈ ത്രികോണത്തിൽ x ഇന്റഗ്രേറ്റഡ് കിട്ടി എന്ന് വിചാരിക്കുക ഇപ്പോൾ എന്താണ് എന്റെ ചേരുവ xപുതിയ വാരിയബിളുകളുടെ അടിസ്ഥാനത്തിൽ സബ്സ്റ്റിട്യൂട്ട് ചെയ്യണം അപ്പോൾ ഇത് ഇങ്ങനെ ആവും ഇനി ഇത് ത്രികോണത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം ഇത് മൂല്യനിർണ്ണയം നടത്താൻ എളുപ്പം ആണ് കാരണം എനിക്ക് അനലിറ്റിക്കൽ എക്സ്പ്രഷൻസ് അറിയാംഈ ഫോർമുല യിൽ നൽകിയത് പോലെ u ന്റെയും v ന്റെയും ഏതൊരു പവറും എനിക്ക് മൂല്യനിർണ്ണയം നടത്താൻ പറ്റും അത്കൊണ്ട് ഞാൻ ഇത് ഇവിടെ സബ്സ്റ്റിട്യൂട്ട് ചെയ്താൽ ഇത് കിട്ടും എന്റെ കോഡിൽ ഞാൻ മൂല്യനിർണ്ണയം നടത്താൻ പോകുമ്പോൾഇവയാണ് ഞാൻ ചെയ്യേണ്ട തന്ത്രങ്ങൾ അതിനാൽ നിങ്ങൾ ജാകോബിയനെ അനുവദിക്കേണ്ടത് പ്രധാനം ആണ് നിങ്ങൾ ഇമ്പ്ലിമെന്റേഷനിലേക്ക് ഇറങ്ങുമ്പോൾ ജാകോബിയൻ കൃത്യമായി നിർണ്ണയിക്കണം അതിനിടയിൽ എന്തെങ്കിലും മോഡ് എടുക്കരുത് കാരണംപോയിന്റുകൾ ഓറിയന്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് 1 അഥവാ 1 കിട്ടിയേക്കാം ജാകോബിയന്റെ നിർവ്വചനത്തിൽ യഥാർത്ഥ മൂല്യം അവിടെ ഇടാൻ ശ്രമിക്കരുത് അതെന്താണ് അത് പോലെ ഇരിക്കട്ടെ അതാണ് ഒരുപാട് കോഡിങ് മിസ്റ്റേക്സ് വരാനുള്ള ഉറവിടം നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ വിദ്യാർത്ഥി ജാകോബിയന്റെ ഫോർമുല എന്താണ് ജാകോബിയന്റെ ഫോർമുലനിങ്ങൾക്ക് ഇത് ലഭിക്കും ഈ ജാകോബിയന് വേണ്ടിയുള്ള കൺവെൻഷൻ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ചില ആളുകൾ ഇതിന്റെ ട്രാൻസ്പോസ് ജാകോബിയൻ ആയി എടുക്കുന്നു പക്ഷെ ട്രാൻസ്പോസ് ഡിറ്റർമിനെന്റ് നെ മാറ്റുകയില്ല വിദ്യാർത്ഥി അതിനാൽ പുതിയ ഇന്റഗ്രേഷന്റെ പരിധികൾ മാറിക്കൊണ്ടിരിക്കും പുതിയ ഇന്റെഗ്രേഷൻ പരിധികൾ ഈ പച്ച ത്രികോണം ആയിരിക്കും കാരണം നമ്മൾ ആ മാപ്പിങ് ചെയ്തിട്ടുണ്ട് അതിനാൽ ഞാൻ വാരിയബിൾ x y ൽ നിന്നും u v യിലേക്ക് മാറ്റുന്നു ആ എല്ലാ 3 നോഡുകളും ഈ പച്ച നോഡുകളിലേക്ക് മാറുന്നു അതിനാൽ ഇന്റഗ്രേഷന്റെ പരിധികൾ ഈ പച്ച ത്രികോണം ആയിരിക്കും എല്ലാം u v എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇത് ഇപ്പോൾ അതി ശക്തമാണ് എനിക്ക് മാട്രിക്സ് എലമെന്റ്സ് നിർണ്ണയിക്കാൻ ഒരു ക്ലോസ്ഡ് ഫോം എക്സ്പ്രഷൻ ഉണ്ട് 1 മില്യൺ എലമെന്റ്സ് ഉള്ള ഒരു കോഡ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് ഫോം എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സബ്സ്റ്റിട്യൂട്ട് ചെയ്ത് അത് കിട്ടും അവിടെ ആഡെഡ് കാൽക്യൂലേഷൻ ആവശ്യമില്ല ക്വാഡ്റാച്ചുഅർ നിയമവും ആവശ്യമില്ല കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലങ്ങളിൽ നിങ്ങൾക്ക് ക്വാഡ്രാച്ചുഅർ നിയമം വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത് പ്രധാനപ്പെട്ടതാണ് ഇത് 1 അഥവാ 2 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ അത് പ്രശമില്ല പക്ഷെ നിങ്ങൾ ചെയ്താൽ I മില്യൺ മടങ്ങ് വർധിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഇന്റഗ്രൽ ഇക്വേഷൻ സമീപനം പോലെ അവിടെ നിങ്ങൾ ക്വാഡ്രാച്ചുഅർ നിയമം ഉപയോഗിച്ച് മാട്രിക്സ് കോഎഫിഷ്യന്റെസ് നിർണ്ണയിക്കേണ്ടതുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓർഡർ ഓഫ് ക്വാഡ്രാച്ചുഅർ കൂടുന്തോറും കൂടുതൽ ആക്കുറസികിട്ടും അതായത്നിങ്ങൾക്ക് കൂടുതൽ കൃത്യത ഉള്ള ഉത്തരം വേണമെങ്കിൽ നിങ്ങൾ മാട്രിക്സ് നിർണ്ണയിക്കാൻ ഒരു പാട് സമയം ചിലവഴിക്കണം എന്നിട്ട് നിങ്ങൾ ആ മാട്രിക്സ് ഇൻവെർട്ട് ചെയ്യാൻ സമയം ചിലവഴിക്കണം ഇവിടെ നിങ്ങൾക്ക് എന്റ്റികൾക്ക് ഉള്ള ഒരു ക്ലോസ്ഡ് ഫോം എക്സ്പ്രഷൻ കിട്ടും മാട്രിസെസ് പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ അത് പെട്ടെന്ന് സോൾവ് ചെയ്യണം അത് കൊണ്ട് ഇത് FEM മെത്തേഡ്സ് ന്റെ ഇരട്ട നേട്ടം ആണ്